അറേയിലെ ഒരു എലെമെന്റ് എങ്ങനെ സെർച്ച് ചെയ്യാമെന്ന് കണ്ടുകഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സോർട്ടിംഗിലേക്ക് തിരിയാം സോർട് ചെയ്യാനുള്ള ഏറ്റവും അടിസ്ഥാന പ്രചോദനം സെർച്ചിൽ നിന്നാണ് നമ്മൾ കണ്ടതുപോലെ നിങ്ങൾക്ക് ഒരു സോർട് ചെയ്യാത്ത അറേ ഉണ്ടെങ്കിൽ മുഴുവൻ അറേയും ആദ്യം മുതൽ അവസാനം വരെ സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾ അത് തിരയണം അതിനാൽ ഒരു എലെമെന്റിനായി തിരയുന്നതിന് നിങ്ങൾ ലീനിയർ സമയം ചെലവഴിക്കുന്നു അതേസമയം അറേ സോർട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈനറി സെർച്ച് ഉപയോഗിക്കുകയും ലോഗരിഥമിക് സമയ ത്തിൽ അതേ ഫലം നേടുകയും ചെയ്യാം കൂടാതെ ലോഗരിഥമിക് സമയം ലീനിയർ സമയത്തേക്കാൾ വളരെ വേഗതയുള്ളതാണ് വാല്യൂകൾ അടുക്കുന്നതിലൂടെ മറ്റ് ഗുണങ്ങളുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾക്ക് മീഡിയൻ കണ്ടെത്തണമെങ്കിൽ പകുതി എലെമെന്റുകൾ വലുതാണെങ്കിൽ പകുതി എലെമെന്റുകൾ ചെറുതാണ് സോർട് ചെയ്തിരിക്കുന്ന അറേയുടെ മീഡിയൻ വ്യക്തമായി അറേയുടെ മധ്യഭാഗമാണ് വാല്യൂകളുടെ ആവൃത്തി പട്ടിക നിർമ്മിക്കുന്നത് പോലുള്ള മറ്റ് ചില സ്ഥിതിവിവരക്കണക്കുകൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വാല്യൂകൾ സോർട് ചെയ്യൂമ്പോൾ അവയെല്ലാം ഒത്തുചേരും എല്ലാ തുല്യ വാല്യൂകളും ഒരു തുടർച്ചയായ ബ്ലോക്കിൽ ആയിരിക്കും അതിനാൽ ഓരോ വാല്യൂവിന്റെയും എത്ര കോപ്പികൾ ഉണ്ടെന്ന് കണ്ടെത്തുന്നത് വളരെ എളുപ്പമാണ് പ്രത്യേകിച്ചും നിങ്ങൾക്ക് എല്ലാ വാല്യൂവിന്റെയും ഒരു പകർപ്പ് മാത്രം വേണമെങ്കിൽ അറേയുടെ എല്ലാ തനിപ്പകർപ്പുകളും നീക്കം ചെയ്യണമെങ്കിൽ നിങ്ങൾ സോർട് ചെയ്ത അറേ തുടക്കം മുതൽ അവസാനം വരെ സ്കാൻ ചെയ്യുകയും ഓരോ ബ്ലോക്കിനും ഒരു പകർപ്പ് മാത്രം സൂക്ഷിക്കുകയും ചെയ്യുക അതിനാൽ അറേയിൽ കൂടുതൽ കണക്കുകൂട്ടൽ നടത്താൻ ഒരാൾ ഒരു അറേ സോർട് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നതിന് നിരവധി വ്യത്യസ്ത കാരണങ്ങളുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു അറേ സോർട് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം അറേകളെക്കുറിച്ച് മറന്ന് എന്തെങ്കിലും തരംതിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക അത് ചിലപ്പോൾ വസ്തുക്കളുടെ ഭൌതിക ശേഖരമാകാം ഉദാഹരണത്തിന് നിങ്ങൾ ഒരു കോഴ്സിന്റെ അസിസ്റ്റന്റ് അധ്യാപകനാണെന്നും കോഴ്സ് പഠിപ്പിക്കുന്ന അധ്യാപകൻ പരീക്ഷാ പേപ്പറുകൾ മൂല്യനിർണയം നടത്തിയെന്നും കരുതുക അദ്ദേഹം നിങ്ങളോട് പരീക്ഷാ പേപ്പറുകൾ മാർക്കിന്റെ ക്രമത്തിൽ സോർട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു ഇവിടെ പരീക്ഷാ പേപ്പറുകൾ അവരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുക എന്നതാണ് നിങ്ങളുടെ ചുമതല ഈ ചുമതല നിങ്ങൾ എങ്ങനെ നിറവേറ്റും അതിനായി ഒരു നല്ല തന്ത്രം ഇനിപ്പറയുന്നവയാണ് നിങ്ങൾ മുഴുവൻ പരീക്ഷാ പേപ്പറുകളും കടന്നുപോകുകയും നിങ്ങൾ കണ്ട ഏറ്റവും ചെറിയ മാർക്കുള്ള പേപ്പർ കൈയിൽ വെക്കുകയും ചെയ്യുക ഈ പാസിന്റെ അവസാനം നിങ്ങളുടെ കയ്യിൽ ഏറ്റവും കുറച്ച് മാർക്കുള്ള പേപ്പർ ഉണ്ടായിരിക്കും ഇത് ഒരു പുതിയ അടുക്കായി വെക്കുക തുടർന്ന് നിങ്ങൾ ഈ പ്രക്രിയ ആവർത്തിക്കുക ഇത്തരത്തിൽ രണ്ടാമത്തെ പാസിന് ശേഷം നിങ്ങൾക്ക് രണ്ടാമത്തെ ഏറ്റവും ചെറിയ മാർക്കുള്ള പേപ്പറും മൂന്നാമത്തെ പാസിനു ശേഷം മൂന്നാമത്തെ ഏറ്റവും ചെറിയ മാർക്കുള്ള പേപ്പറും നിങ്ങൾക്കു കിട്ടും അതായത് നമുക്ക് ഊഹിക്കാനാകുന്നതുപോലെ n പാസ്സുകൾക്കു കഴിയുമ്പോഴേക്കും എല്ലാ പേപ്പറുകളും പഴയ അടുക്കിൽ നിന്ന് പുതിയ അടുക്കിലേക്ക് അവരോഹണ ക്രമത്തിൽ നീങ്ങിക്കഴിഞ്ഞിരിക്കും ഈ പ്രത്യേക തന്ത്രം ഇനിപ്പറയുന്ന രീതിയിൽ വിശദീകരിക്കാം ആറ് വാല്യൂകളുടെ ഈ പട്ടിക അല്ലെങ്കിൽ അറേ നമ്മുടെ പക്കലുണ്ടെന്ന് കരുതുക ആദ്യ പാസിൽ നമ്മൾ ഏറ്റവും ചെറിയ വാല്യൂ തിരയുന്നു ഈ പട്ടികയിലെ ഏറ്റവും ചെറിയ വാല്യൂ 21 അതിനാൽ നമ്മൾ 21 ഒരു പുതിയ ലിസ്റ്റിലേക്ക് നീക്കുകയും യഥാർത്ഥ ലിസ്റ്റിൽ നിന്ന് അത് നീക്കം ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ ശേഷിക്കുന്ന വാല്യൂകൾക്കിടയിൽ നമ്മൾ സ്കാൻ ആവർത്തിക്കുന്നു 32 ആണ് ഇനി ഏറ്റവും ചെറുത് അതിനാൽ നമ്മൾ അത് നീക്കംചെയ്ത് പുതിയ പട്ടികയിലേക്ക് നീക്കുന്നു ഈ പ്രക്രിയ തുടരുന്നു അതിനാൽ അടുത്ത ഘട്ടത്തിൽ നമ്മൾ 55 നീക്കുന്നു തുടർന്ന് 64 ഉം പിന്നീട് 74 ഉം പിന്നീട് 89 ഉം നീക്കുന്നു അതിനാൽ ഈ പ്രക്രിയയിൽ ഇത് ഒരു വെർട്ടിക്കൽ സ്റ്റാക്ക് ആയിരുന്നെങ്കിൽ 21 താഴെയായിരിക്കും 89 മുകളിലായിരിക്കും അതിനാൽ ലിസ്റ്റ് അവരോഹണ ക്രമത്തിൽ മുകളിൽ നിന്ന് താഴേക്ക് അടുക്കും ഈ സാഹചര്യത്തിൽ അത് വലത് നിന്ന് ഇടത്തേക്ക് അവരോഹണ ക്രമത്തിലോ ഇടത്തുനിന്ന് വലത്തോട്ട് ആരോഹണ ക്രമത്തിലോ ആണ് ഈ തന്ത്രത്തെ സെലക്ഷൻ സോർട്ട് എന്ന് വിളിക്കുന്നു ഓരോ റൌണ്ടിലും ഏറ്റവും ചെറിയ അടുത്ത ഘടകം നമ്മൾ തിരഞ്ഞെടുക്കുന്നു അടുത്തത് ഞങ്ങൾ സോർട്ട് ചെയ്ത ഓർഡറിൽ അതിന്റെ ശരിയായ സ്ഥാനത്തേക്ക് നീക്കുന്നു അതായത് അന്തിമ സോർട്ട് ചെയ്ത ലിസ്റ്റിന്റെ അവസാനം വരെ നമ്മൾ ഇപ്പോൾ വിവരിച്ച സെലക്ഷൻ സോർട്ടിന്റെ ഈ പതിപ്പ് ഒരു രണ്ടാമത്തെ ലിസ്റ്റ് നിർമ്മിക്കുന്നു മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഒരു പട്ടിക സോർട്ട് ചെയ്യാൻ നമ്മൾ പേപ്പറുകളുടെ രണ്ടാമത്തെ പട്ടിക സൃഷ്ടിക്കേണ്ടതുണ്ട് താഴെ പറയുന്ന രീതി പിന്തുടർന്നാൽ നമുക്ക് രണ്ടാമത്തെ പട്ടിക സൃഷ്ടിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും ഏറ്റവും കുറഞ്ഞ വാല്യൂ കണ്ടെത്തുമ്പോൾ അത് പട്ടികയുടെ തുടക്കത്തിലേക്ക് പോകണമെന്ന് നമ്മൾക്കറിയാം അതിനാൽ ഒരു പുതിയ പട്ടിക സൃഷ്ടിക്കുന്നതിനുപകരം നമ്മൾ അത് നിലവിലെ പട്ടികയുടെ തുടക്കത്തിലേക്ക് നീക്കുന്നു തീർച്ചയായും നിലവിലെ പട്ടികയുടെ തുടക്കത്തിൽ മറ്റൊരു വാല്യൂ ഉണ്ട് അതിനാൽ ആ വാല്യൂവും പുതിയ ചെറിയ വാല്യൂവുമായി പരസ്പരം മാറ്റണം അതിനാൽ നമ്മൾ മിനിമം സ്ഥാനം കണ്ടെത്തുകയും ആദ്യ സ്ഥാനത്തെ വാല്യൂവുമായി ആ മിനിമം സ്ഥാനത്ത് വാല്യൂ മാറ്റുകയും ചെയ്യും ഇപ്പോൾ മുഴുവൻ അറേയിലെയും ഏറ്റവും ചെറിയ വാല്യൂ തുടക്കത്തിലേക്ക് നീങ്ങി ഇനി നമ്മൾ രണ്ടാമത്തെ ഘടകം മുതൽ ആരംഭിക്കുകയും മിനിമം നോക്കുകയും ചെയ്യുന്നു ഇത് രണ്ടാമത്തെ ഏറ്റവും ചെറുതായിരിക്കും അതിനാൽ അറേ വാല്യൂവിന്റെ രണ്ടാമത്തെ സ്ഥാനത്തേക്ക് നമ്മൾ അത് നീക്കുന്നു ഇതേ രീതിയിൽ തുടർന്ന് രണ്ടാമത്തെ ലിസ്റ്റ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് മുമ്പ് ചെയ്ത അതേ സോർട്ടിങ് നടത്താൻ കഴിയും ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണുന്നതിന് മുമ്പുണ്ടായിരുന്ന അതേ അറേ നമ്മൾ എടുക്കുന്നു ആദ്യ റൌണ്ടിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ 21 ആണ് അത് ചുവപ്പ് അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ ഒന്നാം സ്ഥാനം 74 ആണ് അതിനാൽ നമ്മൾ 21 ഉം 74 ഉം കൈമാറുന്നു ഇപ്പോൾ നമുക്ക് ഈ പുതിയ പട്ടിക ലഭിക്കും ഈ പുതിയ പട്ടികയിൽ ഇപ്പോൾ 21 അതിന്റെ യഥാർത്ഥ സോർട്ട് ചെയ്യപ്പെട്ട സ്ഥാനത്താണെന്ന് സൂചിപ്പിക്കാൻ പച്ച നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇനി നമ്മൾ ബാക്കിയുള്ളവയിലെ ഏറ്റവും ചെറിയ വാല്യൂ കണ്ടെത്തും അത് 32 ആണ് 32 രണ്ടാം സ്ഥാനത്ത് തന്നെയാണ് അതിനാൽ അതിനെ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല അതിനാൽ 32 ഇപ്പോൾ പച്ചയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ അത് ശരിയായ സ്ഥാനത്ത് തുടരും ഇപ്പോൾ ബാക്കിയുള്ള പട്ടികയിൽ 55 ആണ് ഏറ്റവും ചെറിയ ഘടകം അത് ചുവപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ അത് 3 ആം സ്ഥാനത്തായിരിക്കണം മൂന്നാം സ്ഥാനത്ത് ഇപ്പോഴുള്ളത് 89 ആണ് അതിനാൽ നമ്മൾ ഇവ രണ്ടും പരസ്പരം കൈമാറുന്നു നമ്മൾ ഇത് ചെയ്യുന്നത് തുടരുന്നു അടുത്ത ഘട്ടത്തിൽ നമ്മൾ 64 തിരിച്ചറിയുകയും അതിനെ നാലാം സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്യും തുടർന്ന് 74 ഇത് ഇതിനകം ശരിയായ സ്ഥാനത്താണ് ഒടുവിൽ 89 മാത്രമാണ് ഏക വാല്യൂ ഒരു ലിസ്റ്റിൽ ഒരു വാല്യൂ മാത്രമേയുള്ളൂ എങ്കിൽ അവിടെ വെച്ച് നിർത്താവുന്നതാണ് അറേ ഇപ്പോൾ സോർട്ട് ചെയ്യപ്പെട്ടിണ്ടുണ്ടാവും ഈ സോർട്ടിങ് രീതി വളരെ ലളിതമായ ഇറ്ററേറ്റിവ് അൽഗോരിതം ഉപയോഗിച്ച് വിവരിക്കാം നമ്മൾ മുഴുവൻ അറേയും സ്കാൻ ചെയ്തുകൊണ്ട് ആരംഭിക്കുന്നു അതായത് 0 മുതൽ n 1 വരെ ആ സെഗ്മെന്റിലെ ഏറ്റവും കുറഞ്ഞ വാല്യൂ നമ്മൾ തിരയുന്നു ആദ്യത്തെ ആവർത്തനം അറേയുടെ ആദ്യപൊസിഷൻ മുതൽ ആരംഭിക്കുന്നു ആദ്യത്തെ പൊസിഷനിലുള്ളതാണ് ഏറ്റവും കുറഞ്ഞ വാല്യൂ എന്ന് കരുതുകയും മുന്നോട്ടുപോകുമ്പോൾ ഒരു ചെറിയ മൂല്യം കണ്ടെത്തുമ്പോഴെല്ലാം അത് ഏറ്റവും കുറഞ്ഞ സ്ഥാനമായി അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ആദ്യത്തെ ആവർത്തനം ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് A0 മുതൽ An 1 വരെയുള്ള മിനിമം വാല്യൂ കിട്ടും ഈ വാല്യൂ അറേയുടെ ആദ്യപൊസിഷനിലേക്ക് നീക്കണം അതിനായി നിങ്ങൾ ആദ്യസ്ഥാനത്തുള്ള വാല്യൂവും കുറഞ്ഞ വാല്യൂവും പരസ്പരം മാറ്റുക ഇപ്പോൾ A0 എന്നതിൽ നമുക്ക് ഏറ്റവും ചെറിയ വാല്യൂ കിട്ടുന്നു ഇനി നിങ്ങൾ ഈ ലൂപ്പിലേക്ക് തിരിച്ചുവരിക അടുത്ത ആവർത്തനത്തിനായി ലൂപ്പിന്റെ ആരംഭ സ്ഥാനം 0 ൽ നിന്ന് 1 ലേക്ക് നീക്കുകയും A1 മുതൽ An 1 വരെ അതേ സ്കാൻ ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ ലഭിച്ച ഏറ്റവും ചെറിയ വാല്യൂ നിങ്ങൾ അറേയുടെ രണ്ടാമത്തെ പൊസിഷനിലേക്ക് അതായത് A1ലേക്ക് മാറ്റുന്നു എന്നിട്ട് മൂന്നാമത്തെ ആവർത്തനത്തിൽ അത് A2 മുതൽ An 1 വരെ ചെയ്യുക അതിനാൽ സെലക്ഷൻ സോർട്ടിന്റെ ലളിതമായ ആവർത്തന പതിപ്പാണ് ഇത് മുഴുവൻ അറേയിൽ ആരംഭിച്ച് ഏറ്റവും ചെറിയ വാല്യൂ ആദ്യ സ്ഥാനത്തേക്ക് നീക്കുക തുടർന്ന് A0 ഒഴിവാക്കി ബാക്കി അറേ എടുക്കുന്നു തുടർന്ന് ഏറ്റവും ചെറിയ ഘടകം A1 ലേക്ക്നീക്കുക തുടർന്ന് A2 ഉപയോഗിച്ച് ആരംഭിക്കുക ഏറ്റവും ചെറിയ ഘടകം കണ്ടെത്തി A2 വിലേക്ക് നീക്കുക അറേയുടെ അവസാനം വരെ ഇത് തുടരുക ഈ അൽഗോരിതം എത്ര സമയമെടുക്കും k അംഗങ്ങളുള്ള സോർട്ട് ചെയ്യപ്പെടാത്ത ഒരു അറേയിലെ ഏറ്റവും കുറഞ്ഞ ഘടകം കണ്ടെത്തുന്നതിന് മുഴുവൻ അറേയും സ്കാൻ ചെയ്യണം ഇതിന് k സ്റ്റെപ്പുകൾ ആവശ്യമുണ്ട് ഓരോ ആവർത്തനത്തിലും സ്കാൻ ചെയ്യേണ്ട സെഗ്മെന്റ് ഒന്ന് കുറയുന്നു അതായത് എല്ലാ n വാല്യൂകളും സ്കാൻ ചെയ്തുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു തുടർന്ന് n 1 വാല്യൂകൾ സ്കാൻ ചെയ്യുന്നു തുടർന്ന് n 2 വാല്യൂകൾ സ്കാൻ ചെയ്യുന്നു ഇത്തരത്തിൽ ആകെ ചെയ്യേണ്ട സ്റ്റെപ്പുകളുടെ എണ്ണം n 2 1 ആണ് ഇത് 1 മുതൽ n വരെയുള്ള നമ്പറുകളുടെ തുകയ്ക്ക് തുല്യമാണ് നമുക്കറിയാം ഇത് n n12 ആണ് ഇതിന്റെ ഓർഡർ n2 ആണ് അതായത് ആവർത്തന രൂപത്തിൽ എഴുതപ്പെട്ട ഈ സെലക്ഷൻ സോർട്ട് അൽഗോരിതത്തിന്റെ ഓർഡർ n2 ആണ് സെലക്ഷൻ സോർട്ടിനെ നമുക്ക് മറ്റൊരു രീതിയിൽ കാണാൻ ശ്രമിക്കാം നമ്മൾ പറഞ്ഞത് മുൻവശത്തുള്ള ഏറ്റവും ചെറിയ വാല്യൂ കണ്ടെത്തി അതിനെ എക്സ്ചേഞ്ച് ചെയ്യക തുടർന്ന് അതേ കാര്യം ചെയ്യുക എന്നതാണ് ഒരേ കാര്യം ചെയ്യുക എന്ന് പറയുമ്പോഴെല്ലാം അതിനെ ഒരു റെക്കേർസിവ് അൽഗോരിതം ആയി കരുതുന്നത് ഉപയോഗപ്രദമാണ് അതിനാൽ പൊതുവായി Aയിൽ i മുതൽ n 1 വരെയുള്ള സോർട്ടിങ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് ഈ സെഗ്മെന്റിലെ അതായത് Ai1 മുതൽ An 1 വരെയുള്ള ഏറ്റവും കുറഞ്ഞ വാല്യൂ കണ്ടെത്തി അത് ആദ്യത്തെ പൊസിഷനിലേക്ക് അതായത് Ai ലേക്ക് മാറ്റുക എന്നതാണ് നമ്മൾ അറേ A യുടെ i എന്ന പൊസിഷനിലാണ് i മുതൽ n 1 വരെയുള്ള വാല്യൂകളെ സോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിനായി നമ്മൾ i1 മുതൽ n 1 വരെ എവിടെയെങ്കിലും മിനിമം കണ്ടെത്തുകയും തുടർന്ന് അത് i പൊസിഷനുമായി പരസ്പരം മാറ്റം ചെയ്യുകയും ചെയ്യും അങ്ങനെ A i യിൽ ശരിയായ വാല്യൂ എത്തിച്ചേരുന്നു ഇനി നമുക്ക് ഇപ്പോൾ i1 മുതൽ n 1 വരെ അടുക്കേണ്ടതുണ്ട് ഇത് എങ്ങനെ റെക്കേർസിവായി ചെയ്യും ഇവിടെ നമ്മൾ സെലക്ഷൻ സോർട്ടിങ് പ്രയോഗിക്കുന്നു i 1 മുതൽ n 1 വരെ സെലക്ഷൻ സോർട്ടിങ് രീതി പ്രയോഗിക്കുന്നു തുടർന്ന് നമുക്ക് ഒരു വാല്യൂ മാത്രമുള്ളപ്പോൾ ഈ പ്രക്രിയ അവസാനിപ്പിക്കുന്നു അതിനാൽ നമ്മൾ Ai ൽ i n 1 ന് തുല്യമായിനിന്ന് ആരംഭിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യില്ല റെക്കേർസിവായി ചിന്തിക്കാനുള്ള ഒരു കാരണം ഇതാണ് മറ്റൊരു കാരണം ഇത്തരത്തിലെഴുതുന്നത് കോഡ് വായിക്കാൻ കുറച്ചുകൂടി എളുപ്പമാക്കും അറേയുടെ സോർട്ട് ചെയ്യാത്ത ഭാഗത്തിന്റെ ആരംഭം start ആണെന്നും n എന്നത് മൊത്തം വലുപ്പവുമാണ് എന്നും കരുതുക അപ്പോൾ അറേയുടെ അവസാനസ്ഥാനം n 1 ആണ് അതിനാൽ start n 1 അല്ലെങ്കിൽ അതിലും വലുതാണെങ്കിൽ ഒന്നും ചെയ്യാതെ ഫങ്ഷൻ റിട്ടേൺ ചെയ്യുന്നു അല്ലാത്തപക്ഷം അറേയുടെ start മുതൽ n 1 വരെയുള്ള ഭാഗത്തിലെ ഏറ്റവും ചെറിയ വാല്യൂ കണ്ടുപിടിക്കുന്നു ഇത് നമ്മൾ മുമ്പ് ചെയ്ത അതേ ലൂപ്പാണ് മിനിമം പൊസിഷൻ സെഗ്മെന്റിന്റെ തുടക്കതിലാണെന്ന സങ്കല്പത്തോടെ ആരംഭിച്ച് മുന്നോട്ട് പോവുകയും മിനിമം പൊസിഷനെക്കാൾ ചെറുതായി ഒരു വാല്യൂ കണ്ടെത്തുമ്പോഴെല്ലാം അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും ഈ ലൂപ്പിന്റെ അവസാനത്തിൽ നമ്മൾ ആദ്യ പൊസിഷനുമായി മിനിമം പൊസിഷനിലുള്ള വാല്യൂ കൈമാറുന്നു ഇപ്പോൾ ശരിയായ വാല്യൂ ശരിയായ സ്ഥാനത്തേക്ക് നീങ്ങി ഇനി നമ്മൾ start1 മുതൽ n വരെയുള്ള അറേയുടെ ഭാഗത്തെ റെക്കേർസിവായി സോർട്ട് ചെയ്യുന്നു അതിനാൽ ഇതിന്റെ കോംപ്ലക്സിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ റെക്കേർസിവ് കണക്കുകൂട്ടലുകൾക്കായി സാധാരണയായി നമ്മൾ ഒരു റെക്കരൻസ് എഴുതുകയാണ് ചെയ്യാറ് അൽഗോരിതങ്ങളുടെ കോംപ്ലെക്സിറ്റി റെക്കേർസിവായി തന്നെ കാണിക്കും n ദൈർഘ്യമുള്ള ഒരു അറേയിൽ സെലക്ഷൻ സോർട്ട് നടത്താൻ t സ്റ്റെപ്പുകൾ ആവശ്യമാണ് എന്ന് കരുതുക അതിനാൽ ആദ്യത്തെ കാര്യം മിനിമം വാല്യൂ കണ്ടെത്തി ആദ്യ പൊസിഷനിലേക്ക് നീക്കാൻ n സ്റ്റെപ്പുകൾ ആവശ്യമാണ് അടുത്തത് അത് തുടക്കത്തിലേക്ക് നീക്കിയ ശേഷം ബാക്കിയുള്ള n 1 ദൈർഘ്യമുള്ള അറേ സെലക്ഷൻ സോർട്ട് നടത്താൻ അവശേഷിക്കുന്നു അതിനാൽ നമുക്ക് t സമയം റെക്കേർസിവായി ആവശ്യമാണ് അതുകൊണ്ട് t എന്നത് n t നു തുല്യമാണ് നമ്മൾ പറഞ്ഞു 1 ദൈർഘ്യമുള്ള ഒരു അറേ സോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല അതിനാൽ t എന്നത് 1 ആണ് t എന്നത് nt ആണ് എന്നും നമ്മൾ കണ്ടു t എടുത്ത് അതേ പദപ്രയോഗം ഉപയോഗിച്ച് വികസിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് t ലഭിക്കും t വികസിപ്പിക്കുകയാണെങ്കിൽ t എന്നിങ്ങനെയും ലഭിക്കും അതിനാൽ ഇത് കൃത്യമായി ഇറ്ററേറ്റിവ് അൽഗോരിതത്തിൽ ലഭിച്ചതുപോലെ n ഈ യൂണിറ്റിൽ നമ്മൾ കണ്ടത് ഇറ്ററേറ്റിവ് ആയും റെക്കേർസിവ് ആയും ഉപയോഗപ്പെടുത്താവുന്ന സെലക്ഷൻ സോർട്ട് എന്ന് വിളിക്കപ്പെടുന്ന വളരെ സ്വാഭാവികമായ ഒരു അൽഗോരിതം ആണ് അതിന്റെ കോംപ്ലെക്സിറ്റി n2 ആണ്